ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ II ഭാഗം 2 എല്ലാവർക്കും നമസ്ക്കാരം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള നമ്മളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോഴുള്ളത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളെ കുറിച്ചുള്ള മൊഡ്യൂൾ നമ്പർ 4 ലെക്ചർ നമ്പർ 32 ലാണ് ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ ഭാഗം 2 ൽ നമ്മൾ പ്രധാനമായും പോയിന്റ് പ്രൊജക്ഷനുകൾ ലൈൻ പ്രൊജക്ഷനുകൾ എന്നിവ ഉൾക്കൊള്ളുന്നു തിരശ്ചീന തലങ്ങളിലും ലംബ തലങ്ങളിലും രേഖകൾ എങ്ങനെ ദൃശ്യമാകും അവ പ്ലെയിനുകൾക് സമാന്തരമാണെങ്കിൽ അവ പ്ലെയിനുകൾക് ലംബമാണെങ്കിൽ അവ പ്ലെയിനുകളിലേക്ക് ചായ്വുള്ളതാണെങ്കിൽ ഇവയെല്ലാം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിന്റെ അടിസ്ഥാന നിർമ്മാണമാണ് നമുക്ക് ആ മൊഡ്യൂളിലേക്ക് പോകാം ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളിൽ അവസാന ക്ലാസിൽ ഒരു രേഖയുടെ വ്യത്യസ്ത തരം പ്രൊജക്ഷനുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഉദാഹരണത്തിന് തിരശ്ചീന തലത്തിന് ലംബമായ രേഖയും ലംബ തലത്തിന് ലംബമായ രേഖയും എങ്ങനെയാണ് പ്രൊജക്ഷന്റെ അടിസ്ഥാനത്തിൽ മാറുന്നത് എന്നെല്ലാം അതിനാൽ ഉദാഹരണത്തിന് ഒരു രേഖ തിരശ്ചീന തലത്തിലേക്ക് ലംബമാണെങ്കിൽ തിരശ്ചീന തലത്തിൽ ഈ മുഴുവൻ രേഖയുടെയും പ്രൊജക്ഷൻ ഒരു ബിന്ദുവായിട്ടായിരിക്കും ഉണ്ടാവുക അതേസമയം ആ ലംബ തലത്തിന് സമാന്തരമായ ഈ രേഖയുടെ പ്രൊജക്ഷൻ നമുക്ക് അതിനെ ഒരു യഥാർത്ഥ ദൈർഘ്യ രേഖയായി കാണാനാകും കാരണം ഈ എ ബി എന്ന രേഖയാണ് യഥാർത്ഥ ദൈർഘ്യ രേഖ ഈ കേസിൽ ആ ലംബ തലത്തിൽ അതിന്റെ പ്രൊജക്ഷൻ യഥാർത്ഥ ദൈർഘ്യമായി മാറുന്നു തിരശ്ചീന തലത്തിൽ അതൊരു ബിന്ദുവായി മാറുന്നു നമ്മുടെ നോട്ടെഷൻസ് പ്രകാരം യഥാർത്ഥ രേഖകൾ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചും കൂടാതെ പ്രൊജക്ഷനുകൾ അവ തിരശ്ചീന തലത്തിലാണെങ്കിൽ അത് ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചും ഇനി അവ ലംബ തലത്തിലാണെങ്കിൽ ഡാഷ് ' അല്ലെങ്കിൽ പ്രൈം ' ഉള്ള ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചും സൂചിപ്പിക്കുന്നു അതുപോലെ തിരശ്ചീന തലം ലംബ തലം എന്നിവയ്ക്ക് സമാന്തരമായ ഒരു രേഖയിലേക്കാണ് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത് തുടർന്ന് ടോപ് വ്യൂവിലോ അല്ലെങ്കിൽ തിരശ്ചീന തലത്തിലോ കൂടാതെ ഫ്രണ്ട് വ്യൂവിലോ അല്ലെങ്കിൽ ലംബ തലത്തിലോ ഇത് യഥാർത്ഥ ദൈർഘ്യം നൽകുന്നു അതിനുശേഷം തിരശ്ചീന തലവുമായി ഒരു ചെരിവ് കോൺ ഉണ്ടാക്കുന്ന ഒരു രേഖയിലേക്കു നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നു നമ്മൾ അത് ദീർഘിപ്പിക്കുകയാണെങ്കിൽ അത് തിരശ്ചീന തലവുമായി തീറ്റ Theta θ എന്നൊരു കോൺ സൃഷ്ടിക്കുന്നു പക്ഷേ ഈ രേഖ ലംബ തലത്തിന് സമാന്തരമാണ് അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ദൈർഘ്യം ഫ്രന്റ് വ്യൂവിലേക്കു പ്രൊജക്റ്റ് ചെയ്യപ്പെടും കൂടാതെ പ്രത്യക്ഷ ദൈർഘ്യം ടോപ് വ്യൂവിലേക്കു പ്രൊജക്റ്റ് ചെയ്യപ്പെടും നമ്മളുടെ പതിവ് നൊട്ടേഷൻ ഏതൊരു രേഖയും തിരശ്ചീന തലവുമായി ചെരിവ് കോൺ സൃഷ്ടിക്കുകയാണെങ്കിൽ അതിനെ തീറ്റ Theta θ കൊണ്ട് പ്രതിനിധീകരിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ കൂടാതെ ഈ രേഖ ലംബ തലവുമായി ഒരു കോൺ സൃഷ്ടിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഫൈ Phi ø എന്ന് വിളിക്കുന്നു ഈ സാഹചര്യത്തിൽ ഒരു രേഖ ലംബ തലവുമായി ഫൈ Phi ø എന്നൊരു കോൺ സൃഷ്ടിക്കുന്നു അതിനാൽ തിരശ്ചീന തലത്തിൽ ആ രേഖ പ്രൊജക്റ്റ് ചെയ്യുന്നതിലൂടെ യഥാർത്ഥ ദൈർഘ്യം നമുക്ക് ലഭിക്കും പ്രൊജക്റ്റ് ദൈർഘ്യം പ്രത്യക്ഷ ദൈർഘ്യം എന്നിവ നമുക്ക് ലംബ തലത്തിൽ കാണാനാകും ഒരു ഉദാഹരണം നോക്കുന്നതിലൂടെ നമുക്ക് ആരംഭിക്കാം ആദ്യത്തെ ഉദാഹരണം എ എന്ന ഒരു ബിന്ദു തിരശ്ചീന തലത്തിന് 20 മില്ലിമീറ്റർ മുകളിലും ലംബ തലത്തിന് 30 മില്ലിമീറ്റർ മുമ്പിലുമാണ് തുടർന്ന് അതിന്റെ പ്രൊജക്ഷനുകൾ വരയ്ക്കുക അതിനാൽ ഈ എ എന്ന ബിന്ദു ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്നു നമുക്ക് പരിഗണിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ലംബ തലം എന്നും ഇത് തിരശ്ചീന തലം എന്നും പരിഗണിക്കാം നമ്മുടെ രേഖ അവിടെ ഒരു ബിന്ദുവുണ്ടെങ്കിൽ ഇതാണ് തിരശ്ചീന തലത്തിന് 20 മില്ലിമീറ്റർ മുകളിലുള്ള ബിന്ദു അതിനാൽ നമുക്ക് ഇതിനെ തിരശ്ചീന തലം എന്ന് വിളിക്കാം ഇതാണ് ലംബ തലം ഇതാണ് ബിന്ദു നമുക്ക് എ എന്ന് വിളിക്കാം ഇത് തിരശ്ചീന തലത്തിന് 20 മില്ലിമീറ്റർ മുകളിലാണ് നമ്മൾ അത് വരയ്ക്കുകയാണെങ്കിൽ അത് ലംബ തലത്തിന് മുന്നിൽ 30 മില്ലീമീറ്റർ ആയിരിക്കും അതിനാൽ ഇത് 30 മില്ലീമീറ്ററായിരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊജക്ഷനുകൾ വരക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ പ്രൊജക്ഷനുകൾ ചെയ്യുന്ന രീതി ഒന്നുകിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം അല്ലെങ്കിൽ നമുക്ക് വശത്ത് നിന്ന് നോക്കാം അത് ഈ ചിത്രം വരയ്ക്കാൻ ഏത് വ്യൂവാണ് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ആദ്യം നമ്മൾ എല്ലായ്പ്പോഴും ഒരു ലംബ തലം വരയ്ക്കുന്നു ഈ ലംബ തലത്തിൽ പ്രൊജക്റ്റ് ചെയ്ത ഒന്ന് നമുക്ക് ഇതിനെ എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്ന് വിളിക്കാം അതിനാൽ നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും ഈ ഒറിജിനിലൂടെ കടന്നുപോകുന്നു ഈ എ എന്ന ബിന്ദു ലംബ തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക അതിനാൽ അത് a' എന്ന് രേഖപ്പെടുത്തുക കൂടാതെ ഇത് നമുക്ക് 20 മില്ലീമീറ്റർ ആയിരിക്കും കാരണം ഇത് നമ്മൾ കാണാൻ പോകുന്ന നീളമാണ് ഇപ്പോൾ എ ആ പ്ലെയിനിലേക്കു പ്രൊജക്റ്റ് ചെയ്യുക തുടർന്ന് തിരശ്ചീന തലം പ്രദക്ഷിണമായി 90 ഡിഗ്രി 90 º തിരിക്കുക നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അതിലേക്ക് പോകുന്നു അത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും അഥവാ അതിനാൽ ഈ നീളം 30 മില്ലീമീറ്ററായിരിക്കും ഇതാണ് നമ്മൾ നിർമ്മിക്കുന്ന രീതി നമുക്ക് ഉത്തരം നോക്കാം വരയ്ക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്താണെന്നാൽ നമുക്ക് എ എന്ന ബിന്ദുവിന്റെ നേരേചൊവ്വേ പ്രൊജക്റ്റ് ചെയ്ത 20 എന്ന നീളമുണ്ട് അത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ അതിനെ തിരശ്ചീന തലത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു തുടർന്ന് ആ ആരം ഈ ഒറിജിന്റെ കൂടെ ഉപയോഗിച്ച് അത് ഈ ബിന്ദുവിലേക്കു ട്രാൻസ്ഫർ ചെയ്യുക ഇത് ഈ തലം 90 ഡിഗ്രി 90 º തിരിക്കുന്നതിന് തുല്യമാണ് അതിനാൽ നമ്മൾ ഈ വശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഈ പ്രൊജക്ഷനുകൾ വീണ്ടും വരയ്ക്കാൻ ശ്രമിക്കുക അതിനുള്ള മാർഗം നമുക്ക് ഈ അച്ചുതണ്ടും ലംബ തലവും ഉണ്ട് ആ പ്ലെയിനിലേക്ക് കടന്നുപോകുന്ന ഈ സ്ഥലത്ത് ഈ കോർഡിനേറ്റുകൾ നമുക്ക് പരിഗണിക്കാം അതിനാൽ ഇത് ഒരു തിരശ്ചീന തലമാണ് എ എന്ന ബിന്ദുവിന്റെ പ്രൊജക്ഷനെ നമുക്ക് a' എന്ന് വിളിക്കാം അവിടെ ഒരു ബിന്ദു പ്രൊജക്റ്റ് ചെയ്യുക അത് ചെയ്തുകഴിഞ്ഞാൽ ആ ആരം ട്രാൻസ്ഫർ ചെയ്യുക വഴി ഈ ഓ യിൽ നിന്ന് ഈ പ്രോജെക്ഷൻ വരെ 90 ഡിഗ്രിയിൽ 90º ഒരു കോൺ നിർമ്മിക്കുക അതിനാൽ അങ്ങനെ നമുക്ക് ലഭിക്കും അതിനാൽ ഈ ഘട്ടങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇത് എങ്ങനെ നിർമ്മിക്കാമെന്ന് ഷീറ്റിൽ നോക്കാം ആദ്യം ഷീറ്റിൽ ഒരു രേഖ വരയ്ക്കുക തിരശ്ചീന തലം ലംബ തലം എന്നിവ നിർമ്മിക്കുക ഇതാണ് ലംബ തലം നമുക്ക് മാർക്കർ ഉപയോഗിക്കാം ഇതാണ് ലംബ തലം ഇതാണ് തിരശ്ചീന തലം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ആദ്യം എ എന്ന ബിന്ദു പ്രൊജക്റ്റ് ചെയ്യുക അത് 30 യൂണിറ്റ് ആണ് 1 2 3 യൂണിറ്റ്സ് അതിനാൽ ഇവിടെ എവിടെയോ 10 20 30 ഇവിടെ കൂടാതെ 20 യൂണിറ്റ്സ് മുകളിലും അതായത് 1 2 യൂണിറ്റ് അതിനാൽ ഇതായിരിക്കണം എ എന്ന ബിന്ദു അത് നമുക്ക് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആദ്യം നമ്മൾ എല്ലായ്പ്പോഴും ഇത് ലംബ തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും കാരണം ഇത് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമാണ് അതിനാൽ ഇവിടെ പ്രോജക്റ്റ് ചെയ്യുക സമാനമായി തിരശ്ചീന തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക എന്തുതന്നെയായാലും a' എന്ന ആ ബിന്ദു നമ്മൾ ലംബ തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഈ നീളം ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മളുടെ കോമ്പസ് ഉപയോഗിക്കുക അതിനാൽ ഈ പ്രൊജക്റ്റ് ചെയ്ത ഒന്നിനെ ഇവിടെ നിന്ന് അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അതിനാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി ഒരു ആർക്ക് വരയ്ക്കുക എന്നതാണ് നമ്മൾ അത് പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ന് വിളിക്കുന്നു അതിനാൽ ഇപ്പോൾ ഈ രേഖകൾ ഇരുണ്ടതാക്കുക ശേഷം ഇത് 20 യൂണിറ്റും ഇത് 30 യൂണിറ്റും ആയിരിക്കും ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ ഒരു ബിന്ദു പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയാണിത് നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം അതേ ബിന്ദു ഒരുപക്ഷേ തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ ഈ പ്രോജെക്ഷൻസ് എങ്ങനെ വരയ്ക്കാം നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ആദ്യത്തെ പ്രശ്നം ഫസ്റ്റ് ക്വാഡ്രാന്റിൽ ആണ് നമ്മൾ ചോദിയ്ക്കാൻ പോകുന്ന രണ്ടാമത്തെ ചോദ്യം തേർഡ് ക്വാഡ്രന്റിൽ ബി എന്ന ഒരു ബിന്ദുവുണ്ട് ഇത് തിരശ്ചീന തലത്തിന് 40 മില്ലീമീറ്റർ താഴെയാണ് ലംബ തലത്തിന് 50 മില്ലീമീറ്റർ മുമ്പിലാണ് ഒരു ചോദ്യം ചോദിക്കുന്നത് പോലെയാണ് നമുക്ക് ഈ തേർഡ് ക്വാഡ്രൻറ് ഉണ്ടെങ്കിൽ അതിൽ ബി എന്ന ബിന്ദു നിലവിലുണ്ട് ഇത് തിരശ്ചീന തലത്തിന് 40 മില്ലീമീറ്റർ താഴെയാണ് കാരണം ആ 40 മില്ലിമീറ്ററിനു താഴെ വരുന്ന തിരശ്ചീന തലമാണ് ഇത് ലംബ തലത്തിനു മുന്നിൽ ഇതാണ് ലംബ തലം മുന്നിലോ പിന്നിലോ നമ്മൾ അതിലേക്കു എങ്ങനെ നോക്കുന്നു അതിനാൽ ഇത് 50 മില്ലീമീറ്ററാണെങ്കിൽ അത് 50 മില്ലീമീറ്ററാണ് ലംബ തലത്തിലും തിരശ്ചീന തലത്തിലും ഈ ബി എന്ന ബിന്ദുവിന്റെ പ്രൊജക്ഷൻ എന്തായിരിക്കും കൂടുതൽ കാര്യങ്ങൾക്കായി നമ്മൾ ചെയ്യേണ്ടത് മുന്നേ ഉള്ള കാര്യങ്ങളെ ഓർമ്മിക്കുക എന്നതാണ് ഈ ബിന്ദു എല്ലായ്പ്പോഴും ഉടൻ തന്നെ നമ്മൾ ലംബ തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം അത് താഴെ എങ്ങോട്ടോ പോകുന്നു പക്ഷേ തിരശ്ചീനമായ കാര്യം തേർഡ് ക്വാഡ്രന്റിനായി നമ്മൾ അത് ചെയ്യുന്ന രീതി എല്ലായ്പ്പോഴും പ്രദക്ഷിണമായി 90 ഡിഗ്രി 90° നമ്മൾ ചെയ്യണം അതിനാൽ ഒന്നാമതായി ഇവിടെ പ്രോജക്റ്റ് ചെയ്യുക തുടർന്ന് ആരം ഉപയോഗിച്ച് കറക്കിക്കൊണ്ട് ഇവിടേയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുക അതിനാൽ അവിടെ നമുക്ക് ഈ ഉണ്ടാകും അവിടെ നമുക്ക് b' ഉണ്ടാകും അത് മുകളിലേക്കും താഴേക്കും വരുന്നു അതിനാൽ നമുക്ക് ആ പ്രശ്നം നോക്കാം അതിനാൽ ബി എന്ന ബിന്ദു ലംബ തലത്തിന് 40 മില്ലീമീറ്റർ താഴെയും 50 മില്ലീമീറ്റർ മുമ്പിലുമാണ് അതിനാൽ ഇതാണ് 50 മില്ലീമീറ്റർ 40 മില്ലീമീറ്റർ 0 10 20 30 40 ഇവിടെയാണ് അതിനാൽ നമ്മുടെ ബി എന്ന ബിന്ദു അത് അവിടെയുള്ള തേർഡ് ക്വാഡ്രന്റിലാണെന്ന് പറയാം ഇപ്പോൾ നമുക്ക് അത് പ്രൊജക്റ്റ് ചെയ്യണം നമ്മളുടെ ബി എന്ന ബിന്ദു ഈ സ്ഥാനത്തേക്ക് വരുന്നു ഇതിനെ നമ്മൾ b' എന്ന് വിളിക്കുന്നു തിരശ്ചീന തലത്തിൽ നമ്മൾ ആദ്യം അതിനെ തിരശ്ചീന തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു തുടർന്ന് ഒരു ആർക്ക് നിർമ്മിക്കുക ഈ ബിന്ദു 90 ഡിഗ്രി 90° തിരിക്കുക നമ്മൾ ബിന്ദു തിരിച്ചു കഴിഞ്ഞാൽ ഈ ബിന്ദു ഈ എന്ന ബിന്ദുവിലേക്കും ഈ b' എന്ന ബിന്ദുവിലേക്കും നീങ്ങുന്നു എ എന്ന ബിന്ദു ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആണെങ്കിൽ ടോപ് വ്യൂ താഴെയായിരിക്കും ഫ്രന്റ് വ്യൂ മുകളിൽ ആയിരിക്കും അതിനാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലായ്പ്പോഴും അത് അടിയിലാണോ അതോ മുകളിലാണോ എന്ന് പറയുന്നു ഇത് തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ അവ ഫ്ലിപ്പുചെയ്യും അതിനാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു ടോപ്പ് വ്യൂവും അതുപോലെ ഒരു ഫ്രണ്ട് വ്യൂവും ആണ് ഈ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ വരക്കേണ്ടത് ഇത് വീണ്ടും സെക്കന്റ് ക്വാഡ്രന്റിലാണെങ്കിൽ നമ്മൾ ഈ ബിന്ദു നേരെ ലംബ തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു തിരശ്ചീന തലത്തിലേക്ക് പ്രോജക്റ്റ് ചെയ്തതിനു ശേഷം 90 ഡിഗ്രി 90° തിരിക്കുന്നതിലൂടെ അത് മുകളിലേക്ക് എത്തുന്നു ഇത് അവിടെയുള്ള ഫോർത് ക്വാഡ്രന്റിലാണെങ്കിൽ അപ്പോഴും ആദ്യത്തെ ബിന്ദു ലംബ തലത്തിലേക്ക് ഇവിടെ എവിടെയെങ്കിലുമായി പ്രൊജക്റ്റ് ചെയ്യുന്നു ശേഷം തിരശ്ചീന തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക എന്നിട്ട് അത് 90 ഡിഗ്രി 90° പ്രദക്ഷിണമായി തിരിക്കുക ഒരു പ്ലെയിനിൽ ഒരു ബിന്ദുവിന്റെ ഫ്രന്റ് വ്യൂവും ടോപ് വ്യൂവും നിർമ്മിക്കുന്നതിന് നമുക്കൊരു മാർഗമുണ്ട് ബിന്ദു ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാനാകുന്ന സൊല്യൂഷൻ എന്താണെന്നു നമുക്ക് നോക്കാം നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്നാൽ a' മുകളിലെ തലത്തിലും താഴെയുമാണ് ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഒരു ബിന്ദുവിന്റെ ഫ്രന്റ് വ്യൂ ഇതാണ് ഇതാണ് അതിന്റെ ടോപ് വ്യൂ നമ്മൾ പിന്തുടർന്ന സ്റ്റെപ്സ് ഇവയെല്ലാമാണ് ഒന്നാമതായി നമ്മൾ എന്നൊരു റഫറൻസ് രേഖ വരയ്ക്കണം ഇതാണ് രേഖ തുടർന്ന് യ്ക്കു 20 മില്ലീമീറ്റർ മുകളിലായി a' എന്ന ബിന്ദു അടയാളപ്പെടുത്തുക എ എന്ന ബിന്ദു ലംബ തലത്തിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് അതിനാൽ യ്ക്കു മുകളിൽ 20 മില്ലീമീറ്റർ ഉയരത്തിൽ നമ്മൾ a' അടയാളപ്പെടുത്തുന്നു നമ്മൾ ഫസ്റ്റ് ക്വാഡ്രാന്റിൽ ആണ് ഉള്ളത് തുടർന്ന് ഈ ബിന്ദുവിലൂടെ ലേക്ക് ഒരു ലംബ രേഖ വരച്ച് അതിനു 30 മില്ലിമീറ്റർ താഴെയായി ടോപ് വ്യൂ അടയാളപ്പെടുത്തുക നമ്മൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ a' എന്നത് നമുക്ക് ലഭിക്കുന്ന ഫ്രന്റ് വ്യൂവും എന്നത് നമുക്ക് ലഭിക്കുന്ന ടോപ് വ്യൂവും ആണ് ഇനി നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം ഡി എന്ന ഒരു ബിന്ദു തിരശ്ചീന തലത്തിന് 20 മില്ലീമീറ്റർ താഴെയും ലംബ തലത്തിന് 30 മില്ലീമീറ്റർ മുമ്പിലുമാണ് അതിന്റെ പ്രോജെക്ഷൻസ് വരയ്ക്കുക ഈ ബിന്ദു എങ്ങനെ വരയ്ക്കാമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ അത് ദൃശ്യവൽക്കരിക്കുന്നതിന് ആദ്യമായി ഇതുപോലുള്ള ഒരു സ്കീമാറ്റിക് നിർമ്മിക്കേണ്ടതുണ്ട് ഇതാണ് ലംബ തലം ഇതാണ് തിരശ്ചീന തലം തിരശ്ചീന തലത്തിനു 20 മില്ലീമീറ്റർ താഴെയായി ഡി എന്നൊരു ബിന്ദു ഉണ്ട് തിരശ്ചീന തലം ലംബ തലം 20 മില്ലീമീറ്റർ താഴെ എന്ന് വച്ചാൽ ഏകദേശം ഈ ഭാഗത്ത് കൂടാതെ ലംബത്തിന് 30 മില്ലീമീറ്റർ മുമ്പിലായി അതിനാൽ 20 മില്ലീമീറ്റർ താഴേക്ക് പോകുക കൂടാതെ അത് ലംബ തലത്തിന് 30 മില്ലീമീറ്റർ മുമ്പിലായിട്ടാണ് അതിനാൽ ഞാൻ ലംബ തലത്തിൽ നിന്ന് അളക്കുകയാണെങ്കിൽ ഇത് 30 ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ തിരശ്ചീന തലത്തിൽ നിന്ന് അളക്കുകയാണെങ്കിൽ അത് 20 ആയിരിക്കും അതിനാൽ നിങ്ങളുടെ ഡി എന്ന ബിന്ദു ഫോർത്ത് ക്വാഡ്രന്റിലാണ് എന്നിരുന്നാലും ഫസ്റ്റ് ക്വാഡ്രാന്റിൽ നിന്ന് പ്രൊജക്ഷനുകൾ വരയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ബിന്ദു ഉള്ളത് ഫോർത്ത് ക്വാഡ്രാന്റിൽ തന്നെയാണ് അത് നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ടെക്നിക് ഉപയോഗിച്ച് പ്രതിനിധീകരിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബിന്ദു ലംബ തലത്തിലേക്ക് പ്രോജക്റ്റ് ചെയ്യുക ഇവിടെ എവിടെയെങ്കിലുമായി നമുക്ക് d' ലഭിക്കും ഡി എന്ന ബിന്ദു തിരശ്ചീന തലത്തിലേക്ക് പ്രോജക്റ്റ് ചെയ്യുക തുടർന്ന് ഈ ആരം ഉപയോഗിച്ച് അത് താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അതിനാൽ ആ എന്ന ബിന്ദു നമുക്ക് ലഭിക്കും അതിനാൽ റഫറൻസ് രേഖയിൽ നിന്ന് ഇത് ഇങ്ങനെയായിരിക്കും കാണപ്പെടുക അതിനർത്ഥം നമ്മൾ ഒരു പ്രൊജക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ ആദ്യം വരയ്ക്കേണ്ടത് രേഖയാണ് d' അതിന്റെ താഴെ 30 മില്ലീമീറ്റർ അകലത്തിൽ ആയിരിക്കും തിരശ്ചീന തലത്തിൽ നിന്ന് 20 മില്ലീമീറ്റർ അകലെയും ആയിരിക്കും അതിനാൽ താഴെ 20 മില്ലീമീറ്റർ ലൊക്കേറ്റ് ചെയ്യുക തുടർന്ന് മുകളിലേക്ക് ഇത് പ്രൊജക്റ്റ് ചെയ്യുക നമുക്ക് 30 എന്ന ദൂരം ഉണ്ട് അതിനാൽ ഒറിജിനിൽ നിന്ന് ഇവിടെ എവിടെയെങ്കിലുമായി 30 മില്ലീമീറ്റർ അടയാളപ്പെടുത്തുക തുടർന്ന് അത് ആരം ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യുക അതിനാൽ നമ്മളുടെ ഡ്രോയിംഗ് ഷീറ്റിലെ സൊല്യൂഷൻ നോക്കാം അതിനാൽ ഒന്നാമതായി നമ്മൾ രേഖ വരക്കേണ്ടതുണ്ട് അതിന് എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്ന് പേര് നൽകുക എവിടെയെങ്കിലും ഒറിജിൻ അഥവാ ഓ തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഒരു ലംബ രേഖ വരയ്ക്കുക ഈ ലംബ രേഖയിൽ നമ്മൾ ചെയ്യേണ്ടത് ഡി എന്ന ബിന്ദു തിരശ്ചീന തലത്തിന് 20 മില്ലീമീറ്റർ താഴെയാണ് അതിനർത്ഥം നമ്മൾ ആ 20 മില്ലീമീറ്റർ ലംബ തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ 20 മില്ലീമീറ്റർ അകലത്തിൽ നമ്മൾ ഈ ഫ്രന്റ് വ്യൂ അടയാളപ്പെടുത്തും അതിനാൽ 20 മില്ലീമീറ്റർ ഇതായിരിക്കും നമുക്ക് d' ആയി ലഭിക്കുന്ന ബിന്ദു കാരണം അതൊരു പ്രോജെക്ഷൻ ആണ് ഈ ബിന്ദു ലംബ തലത്തിന് 30 എംഎം മുമ്പിലാണ് അതിനാൽ ഇവിടെ എവിടെയെങ്കിലുമായി 30 മില്ലീമീറ്റർ പ്രോജക്റ്റ് ചെയ്യുക എന്നാൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനർത്ഥം ആരം അടയാളപ്പെടുത്തുക ഈ ബിന്ദുവിനെ ആർക്ക് വഴി ട്രാൻസ്ഫർ ചെയ്യുക നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ അത് അത് അവിടെ വച്ച് ഛേദിക്കുന്നു അതിനു എന്ന് പേര് കൊടുക്കാം ഇപ്പോൾ ഇതായിരിക്കും ഫ്രണ്ട് വ്യൂ ഇതായിരിക്കും ടോപ്പ് വ്യൂ ഈ നീളത്തിന്റെ ടോപ്പ് വ്യൂ ഒറിജിൻ മുതൽ പൂർണമായും എന്ന ബിന്ദു വരെയും ഫ്രണ്ട് വ്യൂ ഒറിജിൻ മുതൽ d' വരെയും ഇത്തരത്തിലായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് ഒറിജിൻ നമുക്ക് അതിനെ ഓ എന്ന് വിളിക്കാം നമുക്ക് സൊല്യൂഷൻ നോക്കാം അതിനാൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള ബിന്ദു അതിനെ ഉടനെ തന്നെ d' ലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക ഇത് d' ആയിരിക്കണം ഇത് യും അതിനാൽ ഈ ബിന്ദുവിലേക്ക് തിരിക്കുന്നതിലൂടെ പ്രൊജക്റ്റു ചെയ്ത ഒന്ന് നമുക്ക് ലഭിക്കും അതിനാൽ ഇത് ക്ഷമിക്കണം ഇത് d' ഉം ഇത് യും ആയിരിക്കണം അതിനാൽ ഡ്രോയിംഗ് ഷീറ്റിലെ നമ്മളുടെ സൊല്യൂഷൻ നമുക്ക് വീണ്ടും നോക്കാം ഇവിടെ ഈ രേഖ 30 മില്ലീമീറ്റർ ആയിരിക്കുമെന്നത് പോലെയുള്ള അളവുകൾ നമ്മൾ അടയാളപ്പെടുത്തണം അതിനാൽ നിങ്ങൾ അമ്പടയാളങ്ങൾ ഉപയോഗിക്കുക അഥവാ ഇരട്ട അമ്പടയാളങ്ങൾ ഉപയോഗിക്കുക കൂടാതെ ഇത് 20 മില്ലീമീറ്റർ ആയിരിക്കും നമുക്ക് പുതിയ ഉദാഹരണത്തിലേക്ക് പോകാം നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം അവിടെ തിരശ്ചീന തലത്തിന് 20 മില്ലിമീറ്റർ മുകളിൽ ആയി വരുന്ന എ എന്ന ഒരു ബിന്ദു ഉണ്ട് നമുക്ക് ഭാഗം 1 തിരഞ്ഞെടുക്കാം അവിടെ മൂന്ന് ഭാഗങ്ങളുണ്ട് ആദ്യ ഭാഗം അവിടെ തിരശ്ചീന തലത്തിന് മുകളിൽ 20 മില്ലീമീറ്ററും ലംബ തലത്തിന് പുറകിൽ 25 മില്ലീമീറ്ററും ആയി വരുന്ന എ എന്ന ഒരു ബിന്ദു ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന ബിന്ദുവിന്റെ പ്രൊജക്ഷനുകൾ നമുക്ക് വരയ്ക്കാൻ കഴിയുമോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലംബമായ ഒരു തലം നിർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ അത് തിരശ്ചീന തലവും ആകാം അതിനെ ദൃശ്യവത്കരിക്കുക എന്നതാണ് ഇപ്പോൾ നമുക്കുള്ളത് എ എന്ന ബിന്ദുവാണ് അത് തിരശ്ചീന തലത്തിനു 20 മില്ലിമീറ്റർ മുകളിലാണ് മുകളിൽ 20 എന്നത് ഇവിടെ ആകാം അവിടെയും ആകാം പക്ഷേ ഇത് ലംബ തലത്തിന് 25 മില്ലിമീറ്റർ പിറകിലാണ് അതിനാൽ ലംബ തലത്തിന് മുന്നിൽ എന്നാൽ ഇതാണ് നമുക്ക് അത് മുന്നിൽ നിർമ്മിക്കാം കൂടാതെ ഇതാണ് പിറകിലുള്ളത് അങ്ങനെയാണെങ്കിൽ എന്ന ബിന്ദു ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക നമുക്ക് പോയിന്റ് എ എന്ന് വിളിക്കാം അത് ലംബ തലത്തിന് 25 മില്ലിമീറ്റർ പിറകിലും തിരശ്ചീന തലത്തിന് 20 മില്ലിമീറ്റർ മുകളിലുമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ടെക്നിക് ഉപയോഗിച്ച് ഈ ബിന്ദുവിന്റെ ഫ്രന്റ് വ്യൂവും ടോപ് വ്യൂവും നിർമ്മിക്കുക കൂടാതെ വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാൽ എല്ലായ്പ്പോഴും ഈ ബിന്ദു ലംബ തലത്തിലേക്ക് നേരെ പ്രൊജക്റ്റ് ചെയ്യുക ആ ബിന്ദുവിനെ a' എന്ന് രേഖപ്പെടുത്തുക തുടർന്ന് ഈ എ എന്ന ബിന്ദു തിരശ്ചീന തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക തുടർന്ന് 90 ഡിഗ്രി 90° തിരിക്കുക അതിനാൽ ആ എന്ന ബിന്ദു അടയാളപ്പെടുത്താൻ തിരശ്ചീന തലം 90 ഡിഗ്രി 90° തിരിക്കുക കാരണം ഈ ദൂരം തിരശ്ചീന തലത്തിൽ നിന്ന് 20 മില്ലിമീറ്റർ ആണ് ലംബ തലത്തിൽ നിന്ന് 25 മില്ലിമീറ്റർ പിറകിലും ആണ് അതിനാൽ എ എന്ന ബിന്ദു മുകളിലേക്ക് വരുന്നു കാരണം 25 മില്ലീമീറ്റർ നമ്മൾ മുകളിലെ ദിശയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു കൂടാതെ 20 മില്ലീമീറ്റർ ഇതാണ് അതിനാൽ നമ്മൾ അതിനെ 90 ഡിഗ്രി 90° തിരിക്കുമ്പോൾ 25 മില്ലീമീറ്റർ അകലത്തിൽ വരുന്ന ബിന്ദു എല്ലായ്പ്പോഴും മുകളിലേക്ക് പോകുന്നു അതിനാൽ അത് നമുക്ക് ഷീറ്റിൽ വരയ്ക്കാം നമുക്ക് ആ രീതിയിൽ ഒരു ലംബ തലം വരയ്ക്കാം ഇതിന് ഒരു ലംബ തലം എന്ന് പേരിടുക ഇത് എക്സ് ആക്സിസ് ഇത് വൈ ആക്സിസ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ എന്ന ബിന്ദു ലംബ തലത്തിന് 20 മില്ലീമീറ്റർ മുമ്പിലായി പ്രൊജക്റ്റ് ചെയ്യുക എന്നതാണ് അതിനാൽ അവിടെയായി 20 മില്ലീമീറ്റർ നമുക്ക് ഇതിനെ a' എന്ന് വിളിക്കാം ലംബ തലത്തിന് 25 മില്ലീമീറ്റർ പിന്നിലായിരിക്കാം ഈ ബിന്ദു ആ ബിന്ദു ആ ഭാഗത്തായി ട്രാൻസ്ഫർ ചെയ്യുക നമുക്ക് ആ ബിന്ദുവിനെ എന്ന് വിളിക്കാം ഡൈമെൻഷനിങ് എല്ലായ്പ്പോഴും ആവശ്യമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ഭാഗത്താണ് നമുക്ക് അത് നിർമ്മിക്കാം ഇത് 25 മില്ലിമീറ്റർ വരുന്ന ലംബ രേഖയായിരിക്കേണ്ടതാണ് ഇത് 20 മില്ലിമീറ്റർ ആയിരിക്കും അതായത് ആദ്യ ഭാഗം നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് പോകാം രണ്ടാം ഭാഗത്തിൽ ബി എന്ന ബിന്ദു തിരശ്ചീന തലത്തിന് 25 മില്ലിമീറ്റർ താഴെയും ലംബ തലത്തിന് 20 മില്ലിമീറ്റർ പിറകിലുമാണ് അതിനാൽ തിരശ്ചീന തലത്തിന് പിന്നിൽ എന്നാൽ ഇവിടെ ചുവടെ എന്നാൽ ഇത് അതിനാൽ ബി എന്ന ബിന്ദു ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കണം തുടർന്ന് ആദ്യം ഈ ബി എന്ന ബിന്ദു ലംബ തലത്തിലേക്ക് പ്രോജക്റ്റ് ചെയ്യുക അതിനാൽ ആ ആവശ്യത്തിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാൽ താഴെ 25 മില്ലീമീറ്റർ ആണ് അതിനാൽ കുറച്ച് വിടവ് വിടുക നിങ്ങൾ ഈ ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഏതൊരു നിർമ്മാണത്തിനും കുറഞ്ഞത് 30 മില്ലീമീറ്റർ വിടവ് നൽകേണ്ടതുണ്ട് പ്രോജെക്ഷൻ ബി അങ്ങനെയാണെങ്കിൽ പ്രൊജക്ഷനിൽ നിന്ന് 30 മില്ലീമീറ്റർ ഞാൻ നൽകേണ്ടതായിട്ടുണ്ട് തുടർന്ന് ഞാൻ 25 മില്ലീമീറ്റർ താഴെയായി ഇത് നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇവിടെ 25 മില്ലീമീറ്റർ താഴെ ഇവിടെയായി ഒരു ബിന്ദു അടയാളപ്പെടുത്തുക ഇതിനെ b' എന്ന് വിളിക്കാം ഈ രേഖകളെ ബന്ധിപ്പിക്കുക ഇതാണ് ഫ്രന്റ് വ്യൂ ഇതാണ് ടോപ് വ്യൂ b' കഴിഞ്ഞിരിക്കുന്നു ശേഷം ലംബ തലത്തിന് 20 മില്ലിമീറ്റർ പിറകിൽ 20 മില്ലിമീറ്റർ പിറകിൽ അവിടെ എവിടെയോ സ്ഥിതിചെയ്യുന്നു കാരണം ഇത് തേർഡ് ക്വാഡ്രാന്റാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തിരശ്ചീന തലത്തിലേക്ക് ഈ ബി എന്ന ബിന്ദു പ്രൊജക്റ്റ് ചെയ്യുക എന്നതാണ് അത് തിരിക്കുക നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ അത് എവിടെയെങ്കിലും 90 ഡിഗ്രി 90° പ്രൊജക്റ്റ് ചെയ്യും അതിനാൽ ഒരു ബിന്ദു അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും അതിനാൽ നമുക്ക് ആ ബിന്ദു യോജിപ്പിക്കാം നമുക്ക് അതിനെ എന്ന് വിളിക്കാം മൂന്നാമത്തെ ബിന്ദു സി തിരശ്ചീന തലത്തിന് 20 മില്ലിമീറ്റർ താഴെയാണ് ലംബ തലത്തിന് 30 മില്ലിമീറ്റർ മുൻപിലാണ് അതിനാൽ സി എന്ന ബിന്ദു ഒന്നാമതായി ചുവടെ എവിടെയെങ്കിലും ലൊക്കേറ്റ് ചെയ്യുക പക്ഷേ ലംബ തലത്തിന് മുന്നിൽ അതിനർത്ഥം ഇവിടെ അതിനാൽ സി എന്ന ബിന്ദു ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും അതിനാൽ നമ്മൾ എങ്ങനെ നിർമ്മിക്കും ഈ സി എന്ന ബിന്ദു ആ തിരശ്ചീന തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയും തിരശ്ചീന തലം 90 ഡിഗ്രി 90° തിരിക്കുകയും ചെയ്യുക അത് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വീണ്ടും പ്രൊജക്ഷനുകൾക്കിടയിൽ അവിടെയായി 30 മില്ലീമീറ്റർ വിടവ് ഇടുക ഈ രേഖയിൽ നമുക്ക് ഈ പ്രോജെക്ഷൻസ് ലഭിക്കും അതിനെ ലംബ തലം എന്ന് വിളിക്കാം തിരശ്ചീന തലത്തിനു 20 മില്ലീമീറ്റർ താഴെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക അത് യോജിപ്പിക്കുക അതിനെ c' എന്ന് വിളിക്കാം കൂടാതെ അത് ലംബ തലത്തിനു 30 മില്ലീമീറ്റർ മുമ്പിലാണ് അതിനാൽ ലംബമായ തലത്തിനു മുന്നിൽ അത് നമുക്ക് ഇവിടെയും ശ്രദ്ധിക്കാം ഇത് 30 മില്ലീമീറ്ററിന് മുന്നിലുള്ള ലംബ തലം ആണെങ്കിൽ ഇത് ആ പ്ലെയിനിലേക്കു 90 ഡിഗ്രി 90° തിരിക്കുക അങ്ങനെ നമുക്ക് എന്ന ബിന്ദുവും ലഭിക്കും ഇത് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് എല്ലായ്പ്പോഴും ഡയമെൻഷൻസ് നിർമ്മിക്കാം ഇത് 20 മില്ലീമീറ്റർ താഴെയാണ് ഇത് 30 മില്ലീമീറ്റർ ആണ് നമ്മൾ രേഖകളുടെ പ്രൊജക്ഷനുകൾ നിർമ്മിക്കുന്ന രീതിയാണിത് നമ്മുടെ സൊല്യൂഷൻസ് പരിശോധിക്കുക a' ഉം യും രണ്ടും ആ രേഖയുടെ മുകളിലായി ഒരേ വശത്താണ് ബി എന്ന ബിന്ദു തിരശ്ചീന തലത്തിനു 25 മില്ലീമീറ്റർ താഴെയും ലംബ തലത്തിനു 20 മില്ലീമീറ്റർ പിറകിലുമാണെങ്കിൽ സൊല്യൂഷൻ യും b' ഉം എതിർവശങ്ങളിൽ വരുന്ന രീതിയിലായിരിക്കും അതുപോലെ തിരശ്ചീന തലത്തിനു താഴെയും ലംബ തലത്തിനു മുമ്പിലുമായി വരുന്ന സി എന്ന ബിന്ദുവിന്റെ സൊല്യൂഷൻ രണ്ട് ബിന്ദുക്കളും ഒരേ വശത്തു വരുന്ന രീതിയിലായിരിക്കും എന്നാൽ അത് രേഖയുടെ താഴെയാണ് നിങ്ങളുടെ സൊല്യൂഷൻ യഥാർത്ഥ സൊല്യൂഷനുമായി ഒത്തു നോക്കുക അടുത്ത ക്ലാസ്സിൽ ഈ പ്രൊജക്ഷൻ ടെക്നിക്കുകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം